അതിനാൽ നമ്മൾ കണ്ടതുപോലെ 3NF അല്ലെങ്കിൽ BCNF വരെ പ്രായോഗികമാണ് പക്ഷേ അതിന് ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ഡാറ്റാബേസ് കോഴ്സിൽ അത് നമ്മൾ കണ്ടതാണ് ഒരു അധ്യാപകൻ ഡാറ്റാബേസ് കോഴ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ എല്ലാ അധ്യാപകർക്കും പൊതുവായിരിക്കണം ഇപ്പോൾ അത്തരം അപാകതകൾ കൈകാര്യം ചെയ്യാനും ഉയർന്ന സാധാരണ രൂപങ്ങളിലേക്ക് പോകാനും നമുക്ക് ഒരു മൾട്ടി വാല്യൂഡ് ആശ്രിതത്വം ആശയം നമുക്ക് ആവശ്യമാണ് അതിനാൽ ഒരു മൾട്ടി വാല്യുഡ് ഡിപൻഡൻസി അത് മിക്കപ്പോഴും എംവിഡി എന്നാണ് എഴുതുന്നത് ഒരു ഫങ്ഷണൽ ഡിപൻഡൻസിക്ക് പകരം അത് ചിലപ്പോൾ എഫ്ഡി എന്ന് എഴുതപ്പെടുന്നു അതിനാൽ ഇത് ഒരു മൾട്ടി വാല്യുഡ് ഡിപൻഡൻസി MVD ആണ് അത് ഇനിപ്പറയുന്ന രീതിയിൽ നിർവ്വചിച്ചിരിക്കുന്നു അതിനാൽ Y ആശ്രയിക്കുന്നുവെന്ന് കരുതുക മൾട്ടി മൂല്യം X നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് ചിഹ്നം ആദ്യം ചിഹ്നം ശ്രദ്ധിക്കുക ഇത് FD ചിഹ്നത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം രണ്ട് അമ്പുകൾ ഉണ്ട് ഇപ്പോൾ ഇത് എല്ലാ മൂല്യത്തിനും അല്ലെങ്കിൽ ഒരു റിലേഷൻ സ്കീമ R നും ബാധകമാണ് R ന്റെ എല്ലാ നിയമപരമായ സന്ദർഭങ്ങൾക്കും ഇത് ബാധകമാണ് ഇപ്പോൾ t1 ഉം t2 ഉം എന്ന ഒരു ജോടി ട്യൂപ്പിലുകൾ ഉണ്ടെങ്കിൽ താഴെ പറയുന്നവ സംഭവിക്കും ഇനി ഇതാണ് വ്യവസ്ഥകൾ എന്ന് കരുതുക അതിനാൽ t1 X t2 X എന്ന് കരുതുക അപ്പോൾ t3 X t4 X എന്നിങ്ങനെ മറ്റ് രണ്ട് ട്യൂപ്പലുകൾ കൂടി ഉണ്ട് അപ്പോൾ അവ t1 X ന് തുല്യമാണ് അതായത് ഇവ t2 X ന് തുല്യമാണ് അതിനാൽ എല്ലാം ഒരേ X ഭാഗത്തിന്റെ ഈ നാല് ട്യൂപ്പുകൾ കൂടാതെ t3 Y t1 Y യ്ക്ക് തുല്യമാണെങ്കിൽ കൂടാതെ t3 അതിനാൽ എന്നത് പ്രധാനമായും R എന്ന റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ടുകളുമാണ് എന്നാൽ Y ൽ അല്ല X ൽ അല്ല ഇത് സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ട് അവസ്ഥകൾ സംഭവിക്കുകയാണെങ്കിൽ ഇനിപ്പറയുന്ന രണ്ട് വ്യവസ്ഥകൾ സംഭവിക്കുന്നതാണ് അതിനാൽ t4 Y എന്നത് t2 Y യ്ക്ക് തുല്യമായിരിക്കണം കൂടാതെ t4 അതിനാൽ R - Y X ന്റെ t4 നുള്ള ഔപചാരിക നിർവചനം t1 ന്റെതിനു തുല്യമായിരിക്കണം അതിനാൽ ഇതിന്റെ ഔപചാരിക നിർവചനം ഇതാണ് അതിനാൽ ഈ രണ്ട് അവസ്ഥകൾ സംഭവിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കുമ്പോൾ ഇവ രണ്ടും സംഭവിക്കണം അതിനാൽ ഇത് മൾട്ടി വാല്യൂഡ് ആശ്രയത്വത്തിന്റെ നിർവചനമാണ് X അതിനാൽ മൾട്ടി വാല്യു Y നിർണ്ണയിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം അത് മനസ്സിലാക്കാനുള്ള മികച്ച മാർഗമായിരിക്കും അതിനാൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ് അതിനാൽ ഇത് X ആണെന്ന് കരുതുക ഇത് Y ആണ് ഇത് X Y ൽ ഇല്ലാത്ത എല്ലാ ആട്രിബ്യൂട്ടുകളും ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി R - Y - X ആണ് നമുക്ക് ഇപ്പോൾ a എന്ന മൂല്യമുള്ള ആദ്യത്തെ ട്യൂപ്പിൾ t1 പരിഗണിക്കാം ഇത് b ആണ് ഇത് c ആണ് ഇവയാണ് മൂല്യങ്ങൾ ഇപ്പോൾ t2 ന് അതേ X മൂല്യങ്ങളാണുള്ളത് അത് a ആണ് കൂടാതെ അതിനു വ്യത്യസ്തമായ Y ആണ് ഉള്ളത് കൂടാതെ R - Y X അതിനാൽ ഇവ d e എന്ന് നമുക്ക് പറയാം ഇപ്പോൾ t3 യ്ക്ക് e യും t4 ന് a യും ഉണ്ടെങ്കിൽ അത് സംഭവിക്കണം അഥവാ ഈ കോമ്പിനേഷൻ b c d e എന്നിവ വീണ്ടും സംഭവിക്കണം അതിനാൽ ഇത് പ്രധാനമായും b e d c എന്നിവയാണ് അവ സംഭവിച്ചുകൊണ്ടിരിക്കണം കാരണം ഇതാണ് കോമ്പിനേഷൻ കൂടാതെ ഇത് ഒരു കോമ്പിനേഷൻ ഈ രണ്ട് കോമ്പിനേഷനുകളും റിലേഷനിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് അതിനെ X മൾട്ടി വാല്യൂ Y നിർണ്ണയിക്കുന്നു എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇതിന്റെ സമമിതിയിൽ നിന്ന് XY ആണെങ്കിൽ ഒരു MVD XY ഉണ്ടെങ്കിൽ അവിടെ X എന്ന ഒരു MVD യും ഉണ്ടായിരിക്കും ഇതിന്റെ ഉദാഹരണത്തിൽ നിന്നും നിർവ്വചനത്തിൽ നിന്നും അത് വ്യക്തമാണ് കൂടാതെ ഡാറ്റാബേസ് കോഴ്സിൽ നമ്മൾ കണ്ടു പ്രധാനമായും എന്താണ് സംഭവിക്കുന്നത് കോഴ്സ് മുതൽ അധ്യാപകൻ വരെയുള്ള എംവിഡി കോഴ്സ് ഈ കോഴ്സ് അധ്യാപകനും പുസ്തകവും c t book ആയിരിക്കുമ്പോൾ ബന്ധം നിലനിൽക്കുന്നു ഇപ്പോൾ അതിന്റെ അർത്ഥമെന്താണ് എന്നാൽ ഈ ഡാറ്റാബേസ് കോഴ്സ് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇതിനർത്ഥം ഒരു കോഴ്സ് ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അത് കോഴ്സാണ് ഒരു അധ്യാപകനുണ്ടെങ്കിൽ നമുക്ക് പറയാം എബി ആ അധ്യാപകൻ എഫ്ഡിബി എന്ന പുസ്തകം പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതേ കോഴ്സ് ഡാറ്റാബേസിനു മറ്റൊരു ട്യൂപ്പിൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചില വ്യക്തികളുമുണ്ട് XY അവർ മറ്റ് ചില പുസ്തകങ്ങൾ അഥവാ DBM ബുക്ക് പഠിപ്പിക്കുന്നു ഈ രണ്ട് ട്യൂപ്പിളുകൾ സംഭവിച്ചാൽ അതിനാൽ അധ്യാപകൻ എബി എഫ്ഡിബി പുസ്തകം പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർ XY ഡിബിഎം പുസ്തകം പഠിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ബന്ധത്തിൽ മറ്റ് രണ്ട് ട്യൂപ്പിളുകളും ഉണ്ടായിരിക്കണം അതിനാൽ AB ക്ക് ഡിബിഎം എന്ന പുസ്തകവും XY യ്ക്ക് FDB എന്ന പുസ്തകവും പഠിപ്പിക്കാൻ കഴിയണം ഇപ്പോൾ ഇത് എങ്കിൽ എന്തുകൊണ്ട് ഇത് ആവശ്യമാണ് അവബോധപൂർവ്വം ഇത് സംഭവിച്ചില്ലെങ്കിൽ പുസ്തകത്തിനും ആ അധ്യാപകനും എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഇത് കോഴ്സിനെക്കുറിച്ചല്ല അധ്യാപകൻ ഒരുപക്ഷേ ആ പുസ്തകത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു മറ്റ് പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും സമാനമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും അതിനാൽ അത് അഭികാമ്യമായ ഒരു സാഹചര്യമല്ല അതിനാലാണ് ഈ മൾട്ടി മൂല്യമുള്ള ആശ്രിതത്വം ഉപയോഗപ്രദമാകുന്നത് അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം മൾട്ടി വാല്യൂഡ് ആശ്രിതത്വം യഥാർത്ഥത്തിൽ നഷ്ടമില്ലാത്ത ചേർച്ചയ്ക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് കാണാൻ കഴിയും ഒരു നഷ്ടമില്ലാത്ത ചേരൽ എന്ന ആശയം നമ്മൾ നിർവ്വചിക്കുന്നു കൂടാതെ ഇവിടെ ഒരു കാര്യം ഉണ്ട് അതിനാൽ ഈ ബന്ധം R X Y Z ഉണ്ടെന്ന് കരുതുക എന്നിട്ട് അതും കൂടാതെ തീരുമാനിച്ചാൽ ഇപ്പോൾ ഈ ബന്ധം ഇപ്പോൾ താഴെ പറയുന്ന രീതിയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇത് X Y അതിനാൽ R1 നിങ്ങളുടെ X Y ന് തുല്യമാണ് കൂടാതെ R2 എന്നത് X Z ന് തുല്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാം പിന്നെ നമ്മൾ R1 ന്റെ ജോയിൻ എടുക്കുന്നു R1 ന്റെ നാച്ചുറൽ ജോയിൻ R2 ന്റെ കൂടെ ഇത് തീർച്ചയായും X ൽ ആണ് ഇത് നമുക്ക് R എന്ന ബന്ധം തിരികെ നൽകണം അതിനാൽ അതാണ് മുഴുവൻ പോയിന്റും അതിനാൽ നിങ്ങൾ ഇത് എക്സ് വൈയിൽ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് എക്സിന്മേലും ഇസഡ് ആർ ന്മേലും പ്രൊജക്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അതിനാൽ R1 നിർബന്ധമായും പറയുന്നത് പോലെയാണ് അതിനാൽ ഇത് നിലനിർത്തണം തുടർന്ന് ഇത് നിങ്ങളുടെ എംവിഡിയെ തൃപ്തിപ്പെടുത്തുന്നു ഈ MVD യും ഈ നഷ്ടമില്ലാത്ത ജോയിൻ അവസ്ഥയും നിലനിൽക്കുകയാണെങ്കിൽ ഈ MVD ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ R നെ X Y കൂടാതെ X Z എന്നിങ്ങനെ വിഭജിക്കാം അത് നമ്മൾ കണ്ടതുപോലെ വളരെ മികച്ച രൂപകൽപ്പനയാണ്കാരണം ഈ അധ്യാപകന്റെയും കോഴ്സിന്റെയും എല്ലാ ട്യൂപ്പുകളും നമ്മൾ സംഭരിക്കേണ്ടതില്ല നമുക്ക് ഡിബി ഈ അധ്യാപകന് പഠിപ്പിക്കാം ഡിബിക്ക് ഈ പുസ്തകം ഉപയോഗിക്കാം എന്ന് സ്റ്റോർ ചെയ്യാവുന്നതാണ് അത് നല്ലതാണ് അതിനാൽ എംവിഡി ഉപയോഗപ്രദമാകുന്നത് അതുകൊണ്ടാണ് കാരണം ഇത് നഷ്ടരഹിതമായ ജോയിൻ എന്ന ആശയം നിർവ്വചിക്കുന്നു ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഈ MVD ചില കാര്യങ്ങൾ നിർവ്വചിക്കാൻ ഉപയോഗിക്കാം അതിനാൽ അതിനുമുമ്പ് ലളിതമായ കാര്യങ്ങൾ ഇനിപ്പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ X Y യെ ട്രിവിയൽ എന്ന് വിളിക്കുന്നു ഒന്നുകിൽ Y X അല്ലെങ്കിൽ ലളിതമായി R X Y അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഓർ കണ്ടിഷൻ ആണ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ നിസ്സാരമെന്ന് വിളിക്കുന്നു മറ്റേതെങ്കിലും എംവിഡി നിസ്സാരമല്ല അതിനാൽ ഫംഗ്ഷണൽ ഡിപൻഡൻസികൾ പോലെ ഒരു കൂട്ടം എംവിഡികൾ അടയ്ക്കുന്നത് സമാനമായി നിർവ്വചിക്കാം എന്നിട്ട് MVD കൾക്ക് കോംപ്ലിമെന്റേഷൻ ഓഗ്മെന്റേഷൻ ട്രാൻസിറ്റീവ് റെപ്ലിക്കേഷൻ കോലൻസൻസ് തുടങ്ങിയ വ്യത്യസ്ത അനുമാന നിയമങ്ങളുണ്ട് പക്ഷേ അത് ഉപയോഗിച്ച് നാലാമത്തെ സാധാരണ ഫോം എന്ന് വിളിക്കുന്നതിനെ നിർവചിക്കാം അതിനാൽ ഇതാണ് നാലാമത്തെ സാധാരണ ഫോം അല്ലെങ്കിൽ 4NF കൂടാതെ അടിസ്ഥാനപരമായി ഒരു പ്രവർത്തനപരമായ ആശ്രിതത്വം ഉണ്ടെങ്കിൽ ഒരു ബന്ധം 4NF ൽ ആണെന്ന് പറയപ്പെടുന്നു X Y നിസ്സാരമല്ലെങ്കിൽ ഇത് നിസ്സാരമല്ലെങ്കിൽ X ഒരു സൂപ്പർ കീ ആണ് അതിനാൽ നിസ്സാരമല്ലാത്ത എല്ലാ കാര്യത്തിനും ഇടതുവശം ഒരു സൂപ്പർകീയാണ് മറ്റ് കാര്യങ്ങൾക്കുള്ള നിർവചനം നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ ഒരു ബദൽ നിർവചനം ഉണ്ട് ഇതര നിർവചനം പറയുന്നത് ഓരോ MVD X Y യ്ക്കും രണ്ട് നിബന്ധനകൾ സംഭവിക്കുന്നു ഒന്നുകിൽ അത് നിസ്സാരമാണ് അല്ലെങ്കിൽ X ഒരു സൂപ്പർകീയാണ് ഇത് ഒരേ നിർവചനമാണ് ഇതാണ് 4 ആം സാധാരണ രൂപത്തിന്റെ നിർവചനം അതിനാൽ നാലാമത്തെ സാധാരണ രൂപം അങ്ങനെയാണ് നിർവചിക്കാനാവുക ഇതിന്റെ ഉദാഹരണം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് അത് വീണ്ടും ഓർമ്മിക്കാം അതിനാൽ ഈ കോഴ്സ് ടീച്ചർ ബുക്ക് കൂടാതെ പ്രൈമറി കീ എന്നാൽ ഇവയെല്ലാം ഒന്നിച്ച് പ്രൈമറി കീ ആണ് ബുക്ക് റ്റു കോഴ്സ് എന്ന എംവിഡി അവിടെ ഉണ്ടെങ്കിൽ അഥവാ കോഴ്സ് ബുക്ക് ഉണ്ടെങ്കിൽ ഈ ബന്ധം കോഴ്സ് അധ്യാപകൻ Course Teacher കോഴ്സ് പുസ്തകം Course Book എന്ന രീതിയിലേക്ക് വിഭജിക്കാനാവുന്നതാണ് ഇപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ അതിനാൽ അവിടെയുള്ള ഒരേയൊരു MVD ആണ് ഇതെങ്കിൽ ഇത് ആദ്യം 4NF ആണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് 4NF ൽ ആണോ അല്ലയോ എന്നതാണ് ചോദ്യം ഇപ്പോൾ കാര്യം എന്താണെന്നാൽ കോഴ്സ് ഒരു സൂപ്പർകീ അല്ല അതിനാൽ ഈ ബന്ധം 4NF ൽ ഇല്ല അതിനാൽ അതാണ് ഇതിന്റെ പ്രശ്നം അതിനാൽ ഒരിക്കൽ നമ്മൾ 4NF നോർമലൈസേഷൻ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഇതിനെയാണ് 4NF നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇനിപ്പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു ഇത് ഇനിപ്പറയുന്ന രണ്ട് ബന്ധങ്ങളായി വിഭജിക്കപ്പെടും അവ ബുക്ക് വിത്ത് കോഴ്സ് കൂടാതെ ടീച്ചർ വിത്ത് കോഴ്സ് എന്നിവയാണ് കോഴ്സുകളിൽ നിന്ന് പുസ്തകത്തിലേക്കും കോഴ്സിൽ നിന്ന് അധ്യാപകനിലേക്കും മാത്രമാണ് എംവിഡികൾ പ്രവർത്തിക്കുന്നത് അതിനാൽ ഇവ രണ്ടും നിസ്സാരമാണ് കാരണം X Y ലേക്കും കൂടാതെ വലതുവശത്തേക്കും പോകുന്നു മാത്രമല്ല എന്നത് ശൂന്യമാണ് അതിനാൽ ഇവ നിസ്സാരമാണ് അതിനാൽ ഇത് നിർവചനം അനുസരിച്ച് 4NF ൽ ആണ് അതിനാൽ ഇത് മുഴുവൻ ഉപയോഗിക്കുന്നതിനേക്കാളും മികച്ച രൂപകൽപ്പനയാണ് കാരണം നമ്മൾ നേരത്തെ ആർഗ്യു ചെയ്തത് പോലെ ഇതിന് പരിഷ്ക്കരണ അപാകതകൾ ഉണ്ട് അതായത് ഒരു പുതിയ പുസ്തകം അവതരിപ്പിക്കുകയാണെങ്കിൽ ഒന്നിലധികം അപ്ഡേറ്റുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു പുതിയ അധ്യാപകൻ അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ ഒന്നിലധികം അപ്ഡേറ്റുകൾ ആവശ്യമാണ് എന്നാൽ ഈ രണ്ടിലും അല്ല അതിനാൽ ഇവ രണ്ടും മികച്ച ഡിസൈനിലാണ് അതാണ് എംവിഡിയുടെയും 4 എൻഎഫിന്റെയും പൂർണമായ അർഥം അഥവാ നാലാമത്തെ നോർമൽ ഫോം ഇപ്പോൾ എംവിഡി ഒരു പൊതു ആശയത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും അതിനെ ജോയിൻ ഡിപൻഡൻസി അല്ലെങ്കിൽ ജെഡി എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ എംവിഡി മുതൽ അത് പ്രായോഗിക കാര്യങ്ങളേക്കാൾ കൂടുതൽ സൈദ്ധാന്തിക മേഖലയിലേക്ക് പോകുന്നു കൂടാതെ ജെഡി എന്നത് സൈദ്ധാന്തിക ആശ്രിതത്വത്തിന്റെ കൂടുതൽ ഉയർന്ന രൂപമാണ് ഇത് അടിസ്ഥാനപരമായി പറയുന്നത് ആർ എന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അതിനാൽ ആർ എന്ന ബന്ധം ഇത് ഉൾപ്പെട്ടതാണെന്നു കരുതുക R1 മുതൽ Rn വരെ അതിനെ വിഭജിക്കാം അപ്പോൾ നിങ്ങൾ ഈ r എന്ന റിലേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു Ri എടുക്കുകയാണെങ്കിൽ ഈ r എന്നത് റിലേഷൻ സ്കീമ R എന്നതിന്റെ റിലേഷൻ ഇൻസ്റ്റൻസ് ആണ് കൂടാതെ നിങ്ങൾ അവയെല്ലാം ഒരുമിച്ച് ചേർത്താൽ യഥാർത്ഥ r എന്നറിയപ്പെടുന്ന റിലേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് തീർച്ചയായും R സമം 1 മുതൽ n R 1 to n വരെയാണ് അതിനാൽ ഈ വ്യവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ ജോയിൻ ഡിപെൻഡൻസി ഉണ്ടായിരിക്കുമെന്നു പറയുന്നു അതിനാൽ അടിസ്ഥാനപരമായി ജോയിൻ ഡിപെൻഡൻസിയെക്കുറിച്ചുള്ള ആശയം ഇനിപ്പറയുന്നവയാണ് MVD യിൽ നമ്മൾ ചെയ്തത് R എന്ന ബന്ധത്തെ R1 R2 എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചു R1 R2 എന്നിവയുടെ ജോയിൻ അഥവാ തീർച്ചയായും നാച്ചുറൽ ജോയിൻ റിലേഷൻ തിരികെ നൽകുന്നു അഥവാ സമ്പൂർണ്ണ റിലേഷൻ R ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കീമ R നെ R1 മുതൽ Rn വരെയുള്ള വ്യത്യസ്ത ആട്രിബ്യൂട്ടുകളായി വിഭജിക്കുന്നു അതായത് ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നത് യഥാർത്ഥ റിലേഷൻ തിരികെ നൽകുന്നു സാധ്യമായ എല്ലാ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ r എന്ന റിലേഷന്റെ എല്ലാ നിയമപരമായ സന്ദർഭങ്ങളിലും അതിനാൽ ഇതിനെ ജോയിൻ ഡിപെൻഡൻഡ്സി എന്ന് വിളിക്കുന്നു ഒന്നിലധികം മൂല്യമുള്ള ആശ്രിതത്വം ഇപ്പോൾ ജോയിൻ ആശ്രിതത്വത്തിന്റെ ഒരു പ്രത്യേക കേസായി നിർവ്വചിക്കാനാകുമെന്ന് ഒരാൾക്ക് കാണാൻ കഴിയും അതിനാൽ എംവിഡി ഒരു ജോയിൻ ഡിപെൻഡൻസി പ്രത്യേക കേസ് ആണ് ഇവിടെ അടിസ്ഥാനപരമായി n2 എന്നതാണ് അതിനാൽ ഇത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് ഒന്നിലധികം ഭാഗങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ഇതിനെ ജോയിൻ ഡിപെൻഡൻസി എന്ന് വിളിക്കുന്നു ഇപ്പോൾ മൾട്ടി വാല്യുഡ് ഡിപൻഡൻസി ഉപയോഗിച്ച് നമുക്ക് ഒരു നാലാമത്തെ നോർമൽ ഫോം നിർവ്വചിക്കാനാകുന്നതുപോലെ ഈ ജോയിൻ ഡിപൻഡൻസി ഉപയോഗിച്ച് അഞ്ചാമത്തെ നോർമൽ ഫോം എന്നറിയപ്പെടുന്നത് നമുക്ക് നിർവ്വചിക്കാം ഇതിനെ അഞ്ചാമത്തെ നോർമൽ ഫോം അല്ലെങ്കിൽ 5NF എന്ന് വിളിക്കുന്നു സമാനമായ രീതിയിൽ 5th നോർമൽ ഫോമിനെ ചിലപ്പോൾ പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം എന്നും വിളിക്കാറുണ്ട് കാരണം അടിസ്ഥാനപരമായി ഇത് നിങ്ങൾ ഒരിക്കൽ ജോയിൻ ചെയ്താൽ ഈ പ്രത്യേക ആട്രിബ്യൂട്ടുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് അത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് യഥാർത്ഥ റിലേഷൻ തിരികെ ലഭിക്കും അതിനാൽ അതിനെ പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം അല്ലെങ്കിൽ പിജെഎൻഎഫ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ കൂടുതലും സൈദ്ധാന്തിക കാര്യങ്ങളാണ് ഉദാഹരണം ഇനിപ്പറയുന്നവയാകാം അതിനാൽ ഒരു ബ്രാൻഡും ഒരു ഉൽപ്പന്നവും ഒരു സെയിൽസ്മാനും ഉണ്ടെന്ന് കരുതുക അപ്പോൾ അത് ഒരേ സമയത്ത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാനാകും ഇത് എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ഇതിനൊപ്പം ഇത് എടുക്കാം എന്നിട്ട് ഉദാഹരണം കണ്ടെത്താനാകും വളരെ പെട്ടെന്നുള്ള ഒരു ഉദാഹരണം ഇനിപ്പറയുന്നതായിരിക്കാം അതിനാൽ ഈ ഉദാഹരണത്തിൽ ഈ ബ്രാൻഡ് ഉൽപ്പന്നം സെയിൽസ്മാൻ എന്നത് ഈ മൂന്ന് റിലേഷൻസായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ സെയിൽസ്മാൻ ബ്രാൻഡ് ഉൽപ്പന്നം സെയിൽസ്മാൻ ശേഷം ഈ ടേബിളുകളുടെ നാച്ചുറൽ ജോയിൻ യഥാർത്ഥ റിലേഷൻ ബ്രാൻഡ് ഉൽപ്പന്നം സെയിൽസ്മാൻ എന്നത് തിരികെ നൽകുന്നുവെന്ന് കാണാൻ കഴിയും അതായത് ജോയിൻ ആശ്രിതത്വം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു അതിനാൽ ബ്രാൻഡ് ഉൽപ്പന്നം സെയിൽസ്മാൻ എന്നിവയുടെ ഈ യഥാർത്ഥ ഡിസൈൻ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ച രൂപകൽപ്പനയാണിത് കാരണം ഉദാഹരണത്തിന് ഉൾപ്പെടുത്തൽ പരിഷ്ക്കരണ അപാകതകൾ ഇവിടെ കുറവാണ് കാരണം ഇപ്പോൾ ഒരു പ്രത്യേക സെയിൽസ്മാന്റെ ഉൾപ്പെടുത്തൽ ഒരു പ്രത്യേക ബ്രാൻഡിനെ പ്രോത്സാഹിപ്പിക്കുന്നു അത് ഒരു കേസിൽ മാത്രം ഉൾപ്പെടുത്തുന്നത് വഴി ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ജെ എന്ന സെയിൽസ്മാൻ ബ്രാൻഡ് എയിൽ ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ പട്ടികയിലെ ഒന്നിലധികം ഉൾപ്പെടുത്തലുകൾക്ക് പകരം അത് മൂന്ന് ആട്രിബ്യൂട്ടുകളും അടങ്ങിയിരിക്കുന്ന ഇവിടെയാണ് ചേർക്കേണ്ടത് അതിനാൽ അതാണ് പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം ഇതിന്റെ അവസാന രൂപത്തെ ഡൊമെയ്ൻ കീ നോർമൽ ഫോം അല്ലെങ്കിൽ ഡികെഎൻഎഫ് എന്ന് വിളിക്കുന്നു ഇത് സാധാരണവൽക്കരണത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായി കണക്കാക്കപ്പെടുന്നു ഇത് അടിസ്ഥാനപരമായി വെറും സൈദ്ധാന്തിക ആശയമാണ് ഹോൾഡ് ചെയ്യപ്പെടേണ്ട എല്ലാ നിയന്ത്രണങ്ങളും ബന്ധങ്ങളും ഡൊമെയ്ൻ കോൺസ്ട്രയിന്റ്സും കീ കോൺസ്ട്രയിന്റ്സും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു റിലേഷൻ സ്കീമ ഡികെഎൻഎഫിലാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഹോൾഡ് ചെയ്യപ്പെടേണ്ടതെല്ലാം ഡൊമെയ്ൻ കോൺസ്ട്രയിന്റ്സും കീ കോൺസ്ട്രയിന്റ്സും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും അത്രമാത്രം അതിനാൽ നമുക്ക് മറ്റ് നിയന്ത്രണങ്ങളോ മറ്റ് വ്യവസ്ഥകളോ ആവശ്യമില്ല അതിനാൽ ഈ റിലേഷൻ നിലനിർത്തേണ്ടതെല്ലാം ഇവ രണ്ടും നിർവചിക്കുന്നു അത്രമാത്രം അതിനാൽ ഇതാണ് അനുയോജ്യമായ നോർമൽ ഫോം കൂടാതെ ഇത് കൂടുതലും സൈദ്ധാന്തികമാണ് 3NF അല്ലെങ്കിൽ BCNF ന് ശേഷമുള്ള എല്ലാം കൂടുതലും സൈദ്ധാന്തികമാണ് ഡാറ്റാബേസ് പരിശീലകൻ അത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അതിനാൽ അത്ര മാത്രം അതിനാൽ ഒരിക്കൽ ഒരു ബന്ധം DKNF ൽ ആയിക്കഴിഞ്ഞാൽ കാരണം ഇത് അനുയോജ്യമായതാണ് കാരണം ഒരു ക്രമക്കേടും ഇല്ല ഒരു അപാകതയുമില്ല കൂടാതെ എല്ലാ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളും മൾട്ടി വാല്യൂഡ് ആശ്രിതത്വങ്ങളും ഇനി പരിശോധിക്കേണ്ടതില്ല അതിനാൽ ഇതാണ് അനുയോജ്യമായ കേസ് അതോടെ നോർമലൈസേഷനെക്കുറിച്ചുള്ള വിഷയം അവസാനിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഒരു റിലേഷൻ നൽകിയാൽ അതിനെ 3NF അല്ലെങ്കിൽ BCNF വരെയുള്ള നോർമൽ ഫോമിലാക്കാൻ നിങ്ങൾക് ശ്രമിക്കാവുന്നതാണ്